ഇനി നമുക്ക് ബൂസ്റ്റ് കൺവെർട്ടർ തരംഗരൂപങ്ങൾ നോക്കാം ഇതാണ് ബൂസ്റ്റ് കൺവെർട്ടർ നിങ്ങൾ ഈ ടോപ്പോളജി തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻപുട്ട് വശത്ത് ഇൻഡക്ടർ ഉണ്ട് ഈ ദിശയിലേക്ക് ഒഴുകുന്ന ഇലക്ട്രോ കറന്റ് ഉപയോഗിച്ച് ഇത് കോഡ് പോലെ g യിൽ കാണിച്ചിരിക്കുന്നു അതിനാൽ സിഗ്നൽ കൂടുതലായിരിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഓണാണ് അത് കുറവായിരിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഓഫാണ് അതുകൊണ്ടാണ് നമ്മൾ കൺവെൻഷൻ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ ഓണായിരിക്കുമ്പോൾ dTs കാലയളവിലാണ് ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുമ്പോൾ അതിനെ പിരീഡ് Ts എന്ന് വിളിക്കുന്നു ഇനി പോൾ വോൾട്ടേജ് എടുക്കുക രണ്ട് നിർണായക കാര്യങ്ങൾ നമ്മൾ കാണേണ്ട പോൾ വോൾട്ടേജും ഇൻഡക്ടറിലൂടെയുള്ള കറന്റും ആണ് ഈ ഫ്ലോ നിങ്ങളുടെ ഉപകരണങ്ങളും ഘടകങ്ങളും റേറ്റുചെയ്യുന്നതിനുള്ള വിവരങ്ങൾ നൽകും മുമ്പത്തെപ്പോലെ ഇവിടെ പോൾ വോൾട്ടേജ് കണ്ടെത്താൻ എളുപ്പമാണ് അതിനാൽ ഉപകരണം ഓണായിരിക്കുമ്പോൾ ഇവിടെ പോൾ വോൾട്ടേജ് 0 ആയിരിക്കും ഗേറ്റ് ഡ്രൈവ് നൽകുമ്പോഴെല്ലാം പോൾ വോൾട്ടേജ് 0 ആയിരിക്കും ഇത് ഓഫായിരിക്കുമ്പോഴെല്ലാം ഡയോഡ് ചാലകം ചെയ്യുന്നു ഇൻഡക്ടർ ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യുന്നു അതിനാൽ ഡയോഡ് ചാലകം ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ബോർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അത് Vo ആയിരിക്കും അതിനാൽ അത് 0 ആയിരിക്കും Vo ലേക്ക് പോകുന്നു തുടർന്ന് 0 ലേക്ക് പോകുന്നു Vo യിലേക്ക് പോകുന്നു അങ്ങനെയങ്ങനെ പോകുന്നു അതിനാൽ നമുക്ക് ആ തരംഗരൂപം ഇവിടെ നൽകാം പോൾ വോൾട്ടേജിൽ P യിൽ അനുയോജ്യമായ ഒരു കേസിൽ നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്ന തരംഗ രൂപമാണിത് ഇത് Vo മൂല്യമാണെന്ന് നമുക്കറിയാം കാരണം ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ ഡയോഡ് ചാലകം ചെയ്യുന്നു Vo പോയിന്റും പോൾ പോയിന്റും ഒന്നുതന്നെയാണ് അതിനാൽ BOOST കൺവെർട്ടറിന്റെ കാര്യത്തിൽ Vo ആണ് യഥാർത്ഥത്തിൽ പോൾ വോൾട്ടേജിന്റെ പരമാവധി മൂല്യം ഈ പോൾ വോൾട്ടേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററും ഡയോഡും റേറ്റുചെയ്യാനാകും dTs സമയത്ത് ട്രാൻസിസ്റ്റർ ചാലകം ചെയ്യുന്നു ഡയോഡ് ഓഫാണ് അപ്പോൾ ഡയോഡ് താങ്ങാനുള്ള ശേഷി എന്തായിരിക്കണം ഈ പോയിന്റ് 0 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് 0 ആണ് ഇത് Vo ആണ് അതിനാൽ മുഴുവൻ Vo മൂല്യവും ഡയോഡിന് കുറുകെ വിപരീത വോൾട്ടേജായി വരുന്നു ഡയോഡിനുള്ള പ്രതിരോധ വോൾട്ടേജ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ത്രികോണ റിപ്പിൾ തരത്തോടുകൂടിയാണ് ഇവിടെ ഇൻഡക്ടർ കറന്റ് ഉള്ളത് പക്ഷേ മൂല്യങ്ങൾ മാത്രം ആംപ്ലിറ്റ്യൂഡുകൾ വ്യത്യാസമാണ് അതിനാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻഡക്ടർ കറന്റ് തരംഗ രൂപമുണ്ടെന്ന് പറയാം അത് ഒരു സ്ലോപ്പിലൂടെ ഉയരുകയും ഒരു സ്ലോപ്പിലൂടെ വീഴുകയും ചെയ്യുന്നു ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും Vp 0 യുമായി ബന്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഉയർന്ന സ്ലോപ്പ് ഉള്ളത് L അത് ഫാളിംഗ് സ്ലോപ്പ് ആയിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ അത് ഫാളിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായതിനാൽ Vin Vo നെഗറ്റീവ് ആണ് അതിനാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട് അതിനാൽ അത് തുടരുന്നു ബക്ക് കൺവെർട്ടറിന്റെ കാര്യത്തിലെന്നപോലെ ഇൻഡക്ടർ കറന്റിന്റെ ശരാശരി മൂല്യം Io അല്ല ബക്ക് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഇൻഡക്റ്റർ ഔട്ട്പുട്ട് വശത്തായിരുന്നു അതിനാൽ ശരാശരി മൂല്യം നേരിട്ട് Io യെ സൂചിപ്പിക്കുന്നു ഇവിടെ ശരാശരി മൂല്യം സോഴ്സ് കറന്റ് അല്ലെങ്കിൽ ഇൻപുട്ട് കറന്റ് Iin ആണ് ഇവിടെയും നമുക്ക് ഒരു ∆ IL നിർവചിക്കാം വൈദ്യുത പ്രവാഹത്തിന്റെ പീക്ക് മുതൽ പീക്ക് റിപ്പ്ൾ ആംപ്ലിറ്റൂഡ് വരെ അടുത്തതായി നമുക്ക് ഇൻഡക്റ്റർ കറന്റിൻറെ ഘടകങ്ങൾ നോക്കാം ട്രാൻസിസ്റ്റർ BJT ഓൺ ആവുന്ന സമയത്ത് ഇൻഡക്ടർ കറന്റ് ഇതുപോലെ ഒഴുകും നിങ്ങൾക്ക് ഇൻഡക്ടറിനെ ചാർജുചെയ്യുന്ന ഇൻഡക്ടർ കറന്റ് ഉണ്ടായിരിക്കും അതിനാൽ അത് രേഖീയമായി വർദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ആ കറന്റ് വേവ് ആകൃതി നൽകാം അതിനാൽ ഇത് ഇൻഡക്ടറിലൂടെയും സ്വിച്ച് BJT Q ലൂടെയും ഒഴുകുന്ന ഇൻഡക്ടർ കറന്റിന്റെ ഘടകമാണ് അതിനാൽ ഇതാണ് Iq സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ നിലവിലെ Iq 0 ആണെന്നും അത് ഓണായിരിക്കുമ്പോൾ നമ്മൾ ഇൻഡക്ടർ കറന്റ് പിന്തുടരുമെന്നും നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡയോഡിലൂടെയുള്ള കറന്റ് ശൂന്യമായ ഭാഗമായിരിക്കണം മറ്റേ ഭാഗം ഞാൻ നികത്തട്ടെ അതിനാൽ ഇത് ഇതുപോലെയായിരിക്കും അതിനാൽ മഞ്ഞ ഭാഗങ്ങൾ ഡയോഡിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ ഭാഗമാണ് അതിനാൽ അത് കപ്പാസിറ്റർ Ro കോമ്പിനേഷനിലൂടെയും ഒഴുകുന്ന വൈദ്യുതിയാണ് ഡയോഡിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയിൽ നമുക്ക് കുറച്ച് വ്യക്തത ലഭിക്കുന്നതിന് അത് വീണ്ടും Ic Io കറന്റുകളായി വിഭജിക്കുന്നതിന് നീല ഭാഗം നീക്കം ചെയ്യട്ടെ ഇപ്പോൾ ഈ മഞ്ഞ തരംഗത്തിന്റെ ആകൃതിയാണ് ഇവിടെ ഒഴുകുന്നത് ഇതിന് രണ്ട് ഘടകങ്ങൾ ഉണ്ട് ശരാശരി ഘടകവും എസി ഘടകവുമാണ് ശരാശരി ഘടകം Ro യിലൂടെ ഒഴുകും അതായത് Io പൂജ്യം ശരാശരിയുള്ള AC ഘടകം കപ്പാസിറ്ററുകളിലൂടെ ഒഴുകണം ഇപ്പോൾ ഈ വൈദ്യുതധാരയുടെ ശരാശരി മൂല്യം ഇവിടെ എവിടെയോ സ്ഥാപിച്ചിരിക്കുന്നു അത് Io ആയിരിക്കും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശരാശരി പവർ ഘടകം Io ആയിരിക്കും അതിനാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിന്റെ ഈ ത്രികോണ ഭാഗവും കപ്പാസിറ്റർ ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ചുവടെയുള്ള വെളുത്ത ഭാഗവും നിങ്ങൾക്ക് കാണാം ഈ ഭാഗവും ഈ ഭാഗത്തിന് സമാനമായിരിക്കണം ചാർജ് ബാലൻസ് ഉണ്ടായിരിക്കാൻ ഈ ത്രികോണാകൃതിയിലുള്ള മുകൾ ഭാഗവും ഈ ഭാഗവും ഒരുപോലെ ആയിരിക്കണം നമ്മൾ അത് ഉടൻ നോക്കും അതിനാൽ നിലവിലെ തരംഗ രൂപങ്ങൾ ചിത്രത്തിലും റേറ്റിംഗിലും വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ BJT യുടെ നിലവിലെ റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഇൻഡക്ടർ കറന്റിന്റെ ശരാശരി Iin ആയിരിക്കുമെന്ന് നിങ്ങൾ കാണും നിങ്ങൾ കപ്പാസിറ്റർ ചാർജ് ബാലൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ Iin ഉം Io ഉം ബന്ധപ്പെട്ടിരിക്കുന്നു d Iin Io അല്ലെങ്കിൽ Iin Io d എന്ന് നിങ്ങൾ കാണും അതിനാൽ ഇവിടെ BJT യുടെ ശരാശരി മൂല്യം നിങ്ങൾക്കറിയാം അതിനാൽ ഇവിടെ Iin ∆ IL 2 ആണ് ദുർബലമായ ഈ കറന്റിനാണ് BJT റേറ്റുചെയ്യേണ്ടത് അതുപോലെ ഡയോഡും ഔട്ട്പുട്ട് ശരാശരി കറന്റ് Io യും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സ്പെക് ആണ് ഇത് യഥാർത്ഥത്തിൽ മഞ്ഞ ഭാഗമായ തരംഗരൂപത്തിൻറെ ശരാശരി മൂല്യമാണ് ഇപ്പോൾ നമുക്ക് കറന്റ് തരംഗരൂപം അല്പം അടുത്ത് നോക്കാം അങ്ങനെ നമുക്ക് C L എന്നിവയുടെ മൂല്യങ്ങൾ കണക്കാക്കാം BOOST കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഇൻഡക്റ്റർ കറന്റ് തരംഗരൂപം ഇതുപോലെയാണ് തുടർന്ന് ഇൻഡക്ടർ കറന്റ് തരംഗരൂപം ഇവിടെ വരയ്ക്കുക ഒരു തരം ത്രികോണ തരംഗരൂപം ഉണ്ടെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് നമ്മൾ Iin എന്നും Io എന്നും വിളിക്കുന്ന ഈ ശരാശരി മൂല്യമാണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അത് യഥാർത്ഥത്തിൽ ഈ പ്രവാഹത്തിന്റെ ഭാഗത്തിന്റെ ശരാശരിയായി വരുന്നു ഇപ്പോൾ അത് അങ്ങനെയല്ലെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ Io യും Iin ഉം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു VoIo ഔട്ട്പുട്ട് പവറും VinIin ഇൻപുട്ട് പവറും ആണെങ്കിൽ നമ്മൾ പറയുന്നു ഒരു അനുയോജ്യമായ അർത്ഥത്തിൽ കൺവെർട്ടറിനുള്ളിൽ ഒരു നഷ്ടവുമില്ല കാരണം അവർ ഒന്നുകിൽ സ്വിച്ച് ഘടകങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് ഘടകങ്ങൾ ഉള്ളതിനാൽ L C എന്നിവ രണ്ടും വിഘടിപ്പിക്കാത്തവയാണ് അതിനാൽ ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവറിന് തുല്യമായിരിക്കണം അതിനാൽ ഇവ രണ്ടും തുല്യമായിരിക്കണം ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ Vo യും Vin ഉം തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നിങ്ങൾക്കറിയാം VoIo Vin Iin എന്ന ഏതൊരു കൺവെർട്ടറിനും ഇത് സാധുതയുള്ളതാണ് ഇപ്പോൾ BOOST കൺവെർട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ Vo Vin Io Vin Iin എന്ന് പറയുന്നു അതിനാൽ നമുക്ക് ഇത് നീക്കം ചെയ്യാം നമ്മൾ പറയും Iin Io നിലവിലെ ബന്ധം നമുക്ക് ലഭിക്കുന്നു നമുക്ക് ഇത് ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അതേ ബന്ധം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കപ്പാസിറ്ററിലെ ചാർജ് ബാലൻസ് ഉപയോഗിക്കാം അതിനാൽ വോൾട്ടേജ് ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഒരു സ്പെക് Vo ആയതിനാൽ Iin കണ്ടെത്താനാകും കൂടാതെ Vin മൂല്യം അറിയാം അതിനാൽ Iin ന്റെ മൂല്യം അറിഞ്ഞാൽ Iin ∆ IL 2ആയിരിക്കും ഇവിടെ ഏറ്റവും ഉയർന്ന മൂല്യം Imax മൂല്യം അത് Imax മൂല്യം ആയിരിക്കും നിങ്ങൾ BJT യും ഡയോഡും റേറ്റുചെയ്യേണ്ടതുണ്ട് ഉപകരണങ്ങൾക്കുള്ള കറന്റ് റേറ്റിംഗ് അവയുടെ ശരാശരി മൂല്യം ഉപകരണത്തിന്റെ ശരാശരി കറന്റ് റേറ്റിംഗ് ആയിരിക്കും ഡയോഡിന് ഡയോഡ് പീക്ക് വിപരീത റേറ്റിംഗ് Vo യെക്കാൾ വലുതായിരിക്കണം കൂടാതെ BJT യ്ക്ക് പോലും VCEO എന്നത് പോൾ വോൾട്ടേജ് തരംഗത്തിൽ VP ഫോമിൽ നമ്മൾ കണ്ടതുപോലെ Vo യെക്കാൾ വലുതായിരിക്കണം അതിനാൽ ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഇൻപുട്ട് കറന്റിന്റെയും ഔട്ട്പുട്ട് കറന്റിന്റെയും ബന്ധം നിങ്ങൾ ഈ രീതിയിൽ കണ്ടെത്തുന്നു ഇപ്പോൾ നിങ്ങൾ വീണ്ടും BOOST കൺവെർട്ടർ ഇൻഡക്ടർ തരംഗരൂപത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർവചിക്കപ്പെട്ട C ലഭിക്കും എങ്ങനെ നീങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇത് പരിശീലനത്തിനായി ഉപയോഗിക്കാം തുടർന്ന് ഇതാണ് ഇൻഡക്റ്റർ കറന്റ് തരംഗരൂപം ഇതാണ് IL ഭാഗമാണ് അതിനാൽ ഈ രണ്ട് മേഖലകളും പൊരുത്തപ്പെടണം ഇത് കപ്പാസിറ്ററിനുള്ളതാണ് ഇപ്പോൾ Io മൂല്യം Ro യിലേക്കും കിർച്ചോഫ് നിയമമനുസരിച്ച് ബാലസിന് വേണ്ടി പൊരുത്തപ്പെടണമെന്ന് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിനുള്ള ഡെൽറ്റ Q കണ്ടെത്തുകയാണെങ്കിൽ I എന്നത് Io ആണെന്നും ഈ വിഡ്ത് dTs ആണെന്നും എനിക്കറിയാം ഇൻഡക്ടർ കറന്റ് ഉയരുമ്പോൾ നിങ്ങൾക്കറിയാം ഏരിയ അഥവാ ചാർജ്ജ് Io dTs ആണ് ഇത് C∆V ന് തുല്യവുമാണ് അതിനാൽ നിങ്ങൾക്ക് C കണക്കാക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ട് ഇത് പുനഃക്രമീകരിക്കുക നിങ്ങൾക്ക് Iod ∆Vfs ഉണ്ട് Io ഇൻപുട്ടിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം d എന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധത്തിൽ നിന്ന് കണക്കാക്കുന്നു fs വ്യക്തമാക്കിയിരിക്കുന്നു ∆V എന്നത് ഡിസൈൻ സ്പെസിഫിക്കേഷനാണ് ഇത് ഡിസൈൻ സ്പെസിഫിക്കേഷനായിരിക്കണം നിങ്ങൾ കപ്പാസിറ്ററിൽ കുറച്ച് തരം റിപ്പിൾ അനുവദിക്കും അതിനെ അടിസ്ഥാനമാക്കി C യുടെ മൂല്യം നമ്മൾ വീണ്ടും കണക്കാക്കും അതിനാൽ സാധാരണയായി Vo യുടെ 10 ശതമാനം ∆V യ്ക്ക് ഉപയോഗിക്കുകയും C യുടെ മൂല്യം കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ C യുടെ മൂല്യം കണക്കാക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ നിങ്ങൾക്ക് ഇൻഡക്ടർ L ന്റെ മൂല്യവും കണക്കാക്കാം അതിനാൽ BOOST കൺവെർട്ടറിൽ വീണ്ടും നോക്കുമ്പോൾ ഇതാണ് ഇൻഡക്ടർ കറന്റ് തരംഗരൂപം ശരാശരി മൂല്യം Iin ആണെന്ന് കാണാം BOOST കൺവെർട്ടറിന് അത് Io ന് തുല്യമാണ് Io d എന്നിവയുടെ മൂല്യം അറിഞ്ഞാൽ Iin കണക്കാക്കാം എന്താണ് ഈ സ്ലോപ്പ്സ് ഈ സ്ലോപ്പ് ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നതിനുള്ള പോൾ വോൾട്ടേജ് ആ സമയത്ത് 0 ആണ് സ്വിച്ച് ഓണാണ് അതിനാൽ Vin L നിരക്കിലാണ് ഈ ചാർജർ കറന്റ് അതിനാൽ ചാർജിംഗ് അർത്ഥമാക്കുന്നത് ഇത് കുറയുമ്പോൾ ഇത് L ആയിരിക്കും Vo വലുതായതിനാൽ ഇത് ഫാളിങ് സ്ലോപ്പിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഉയരുന്ന മൂല്യമായ Vin L വിലയിരുത്താൻ ഏതെങ്കിലും സ്ലോപ്പ്കൾ ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഇവിടെയുണ്ട് Vin L എന്നത് അല്ലാതെ മറ്റൊന്നുമല്ല തരംഗ രൂപത്തിൻറെ നിരക്ക് രേഖീയവും അവ നേർരേഖയുമാണ് അവ ഏകദേശം ∆IL ∆T ആണ് ഇപ്പോൾ ഈ കാലയളവിലെ ∆T എന്നത് dTs ആണ് അതിനാൽ ∆IL dTs എന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഒരുമിച്ച് ചേർക്കാം നമുക്ക് dVin ∆ILfs ആയ L ഉണ്ട് Ts എന്നത് 1 fs ആയി ഇടുന്നു ഇത് ഇൻഡക്റ്ററുകളുടെ മൂല്യമായിരിക്കും d d max എന്ന പരമാവധി മൂല്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് L max കണക്കാക്കാം d max ബന്ധം എങ്ങനെ കണ്ടെത്താം അതിനാൽ Vo സ്ഥിരമായി നിലനിർത്തണം Vo Vin Vo നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതിനാൽ Vin മാക്സിമം പോയാൽ അതേ Vo മൂല്യം ലഭിക്കുന്നതിന് ഡ്യൂട്ടി സൈക്കിൾ മിനിമം ആക്കുകയോ അല്ലെങ്കിൽ Vin മിനിമം പോകുകയോ ചെയ്താൽ Vo യുടെ മൂല്യം ലഭിക്കുന്നതിന് നിങ്ങൾ ഡ്യൂട്ടി സൈക്കിൾ വർദ്ധിപ്പിക്കുകയും വേണം അതിനാൽ Vin min ഇൻപുട്ട് സ്പെക് ടോളറൻസുകളിൽ നിന്ന് Vin min Vin max അറിയപ്പെടുന്നു നിങ്ങൾക്ക് ഇവ രണ്ടും അറിയാമെങ്കിൽ Vo അറിയാം d min ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താനാകുന്ന ഒരു സ്പെസിഫിക്കേഷനും ആണിത് ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് Vomax കണ്ടെത്താനാകും അതിനാൽ L ന്റെ പരമാവധി മൂല്യം കണ്ടെത്താൻ നിങ്ങൾക്ക് ഇവിടെ d max ഉപയോഗിക്കാം നിങ്ങൾ L ന്റെ മൂല്യം കണക്കാക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇൻഡക്റ്റൻസിനായി ഡിസൈൻ സമവാക്യം നൽകും L ന്റെ മൂല്യം മാത്രമേ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന കാര്യം ഇപ്പോൾ ഓർക്കുക എന്നാൽ നിങ്ങൾക്ക് ഒരു കാന്തിക കോഡ് ആവശ്യമുള്ളിടത്ത് നമ്മൾ ഇതുവരെ L ഉണ്ടാക്കിയിട്ടില്ല കൂടാതെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കേണ്ട വൈൻഡിങ്ങുകളുടെ എണ്ണവും വായു വിടവും നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു മൂല്യം ലഭിക്കുന്നതിന് ഫിസിക്കൽ ഇൻഡക്റ്റർ ഉപയോഗിച്ച് ഇൻഡക്റ്റർ നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ മാഗ്നറ്റിക് മാഗ്നറ്റിക് കോഡ് ഉപയോഗിച്ച് ഇൻഡക്റ്റൻസ് എങ്ങനെ നിർമ്മിക്കാം അത് എങ്ങനെ വൈൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് അടുത്ത ആഴ്ചകളിലെ പ്രഭാഷണങ്ങളിൽ ഞാൻ ചർച്ച ചെയ്യും ഇപ്പോൾ പ്രാഥമിക കൺവെർട്ടറിന്റെ മൂന്നാമത്തേതായ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ പരിഗണിക്കുക ഞാൻ ഇവിടെ കരുതുന്ന ടോപ്പോളജി നിങ്ങൾ തിരിച്ചറിയുന്നു ഇൻപുട്ട് സൈഡിലോ ഔട്ട്പുട്ട് വശത്തോ അല്ല ഇൻഡക്റ്റർ ഇടയിലാണെന്ന് നിങ്ങൾക്ക് കാണാം ട്രാൻസിസ്റ്റർ BJT Q ഓൺ ആയിരിക്കുമ്പോൾ ഇൻപുട്ട് സപ്ലൈയിൽ നിന്ന് ഒഴുകുന്ന കറന്റ് വഴി ഇൻഡക്ടർ ഈ രീതിയിൽ ചാർജ്ജ് ആകുന്നത് കാണാം BJT ഓഫായിരിക്കുമ്പോൾ ഇൻഡക്ടർ കറന്റ് നിർത്താൻ കഴിയില്ല അതിനാൽ അത് ഈ രീതിയിൽ ഒഴുകാൻ തുടങ്ങും അതായത് ഇൻഡക്ടർ കറന്റ് ഇൻഡക്ടറിലേക്ക് ഒരേ ദിശയിലായിരിക്കും തൽഫലമായി പ്ലസ് ഉള്ള ഈ പോളാരിറ്റി ഉപയോഗിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിന്റെ നെഗറ്റീവ് വോൾട്ടേജ് ലഭിക്കും നമ്മൾ മുമ്പ് പഠിച്ച ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രവർത്തനമാണിത് ഇപ്പോൾ നമുക്ക് തരംഗ രൂപവും പോൾ വോൾട്ടേജിലുള്ള നിർണായക പോയിന്റും ഇൻഡക്റ്റർ കറന്റും നോക്കാം Vg എന്നത് നിങ്ങൾ BJT അല്ലെങ്കിൽ ഏതെങ്കിലും പവർ സെമി കണ്ടക്ടർ സ്വിച്ചിന് നൽകുന്ന ഗേറ്റ് ഡ്രൈവാണ് Vg ഉയർന്നപ്പോൾ BJT ഓൺ ആയിരിക്കും Vg കുറവായിരിക്കുമ്പോൾ BJT ഓഫാണ് സമയ കാലയളവിന്റെ നിർവചനം ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ് dTs എന്ന ഡ്യൂട്ടി സൈക്കിൾ BJT യുടെ Ton ടൈം ആണ് 1 dTs എന്നത് BJT യുടെ Toff ടൈം ആണ് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ഗേറ്റ് ഡ്രൈവിനായി നിങ്ങൾ പോൾ വോൾട്ടേജിന്റെ Vp നോക്കുകയാണെങ്കിൽ BJT ഓൺ ആയിരിക്കുമ്പോൾ Vin പോളിൽ ദൃശ്യമാകുന്നു കൂടാതെ BJT ഓഫ് ആയിരിക്കുമ്പോൾ ഡയോഡ് ചാലകം നടത്തുന്നു മൈനസ് Vo ധ്രുവത്തിൽ ദൃശ്യമാകുന്നു അതിനാൽ നമുക്ക് അതിനുള്ള തരംഗരൂപവും ഇവിടെ അതിന്റെ സ്ഥാനവും വരയ്ക്കാം അതിനാൽ പോർട്ടിലെ Vp ൽ നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്ന തരംഗരൂപമാണിത് ഇപ്പോൾ BJT ഓണായിരിക്കുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് നേരിട്ട് വരുന്ന Vin ആംപ്ലിറ്റ്യൂഡ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് ഓഫ് ആകുമ്പോൾ ഡയോഡ് ചാലകം ചെയ്യുന്നു Vo യുടെ നെഗറ്റീവ് ഇവിടെ വരും കാരണം ഈ ഘട്ടത്തിൽ Vo പോസിറ്റീവ് ആണ് അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് മൈനസ് Vo കാണുമെന്ന് പ്രതീക്ഷിക്കാം Vo ൽ തന്നെ Vo അളക്കുന്നു Vo നെഗറ്റീവ് ആണ് എന്ന് കാണാം കാണിച്ചിരിക്കുന്നതുപോലെ അതിന് DC യുടെ നെഗറ്റീവ് മൂല്യം ഉണ്ടായിരിക്കും BJT ഓൺ ആയിരിക്കുമ്പോൾ ഡയോഡ് ഓഫ് ആകും അതിനു കുറുകെയുള്ള വോൾട്ടേജ് Vin ആണ് ഉപകരണങ്ങളുടെ വോൾട്ടേജ് റേറ്റിംഗ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ ഈ പോൾ വോൾട്ടേജ് നൽകുന്നു ഈ ഘട്ടത്തിൽ Vin ഇത് Vo ആണ് അതിനാൽ ഇതിലുടനീളം ദൃശ്യമാകുന്ന മുഴുവൻ വോൾട്ടേജും ഡയോഡിന് നില നിർത്തേണ്ടിവരും അതിനാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ തരംഗരൂപത്തിന്റെ മുഴുവൻ ഉയരവും Vin Vo ആണ് അതിനാൽ നിങ്ങൾക്ക് ഒരു Vo ഉണ്ട് നിങ്ങൾക്ക് ഒരു Vin ഉണ്ട് ഇത് നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലൂപ്പ് സമവാക്യം നൽകുന്നു അത് ഡയോഡിന് നിലനിർത്തേണ്ട വോൾട്ടേജ് പൊട്ടൻഷ്യലിന്റെ അളവാണ് അല്ലെങ്കിൽ പോൾ വോൾട്ടേജിൽ ഡയോഡ് നിലനിർത്തേണ്ട ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഉയരം നോക്കുക ഇത് Vin Vo മൂല്യമാണ് Vin Vo ആണ് ഈ പീക്ക് വിപരീത വോൾട്ടേജ് അത് അതിലും വലുതായിരിക്കും ഡയോഡ് ചാലകം ചെയ്യുമ്പോൾ ഈ ഉപകരണം ഓഫ് ആയിരിക്കും ഈ ഉപകരണം ഓഫായിരിക്കുമ്പോൾ ഇത് Vo ലും ഇത് Vin ലും ആണ് അതിനാൽ Vin - വീണ്ടും Vo കൈകാര്യം ചെയ്യേണ്ട ഉപകരണങ്ങൾ അവിടെയുണ്ട് ഇവിടെ ഉപകരണ റേറ്റിംഗുകൾ ബക്ക് കൺവെർട്ടറിലോ ബൂസ്റ്റ് കൺവെർട്ടറിലോ ഉള്ളതിനേക്കാൾ വളരെ ഉയർന്നതായിരിക്കുമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ബക്ക് കൺവെർട്ടറിന് ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട് BOOST കൺവെർട്ടറിന് ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരിക്കും കൂടാതെ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉപകരണങ്ങളുടെ റേറ്റിംഗായി Vin Vo ഉണ്ട് കറന്റിലേക്ക് വരാം അടയാളങ്ങൾ മാറും എന്നതൊഴിച്ചാൽ ഇൻഡക്ടറിന്റെ നിലവിലെ തരംഗ ആകൃതി സമാനമായിരിക്കും ഈ ശരാശരി മൂല്യം Iin Io ആയിരിക്കും ഈ സമയത്ത് ഒഴുകുന്ന കറന്റിന്റെ ശരാശരി മൂല്യം Iin ആണ് ഇത് ഓഫായ സമയം ഇത് Io ആണ് അതിനാൽ ശരാശരി Iin ഉം ശരാശരി Io ഉം കൂടിച്ചേരുകയും L ലൂടെ ഒഴുകുകയും ചെയ്യുന്നു ഇവിടെ ശരാശരി മൂല്യം Iin Io ആയിരിക്കും അതാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അതുപോലെ നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട് BJT ഓൺ ആയിരിക്കുമ്പോൾ Vin L ൽ പോസിറ്റീവ് സ്ലോപ്പ് ആണ് BJT ഓഫായിരിക്കുമ്പോൾ L ന് കുറുകെ Vo ദൃശ്യമാകുന്നു താഴത്തെ സ്ലോപ്പ് നെഗറ്റീവ് Vo L ആണ് ഇനി നമുക്ക് ഇപ്പോൾ ഇൻഡക്റ്ററിന്റെ ഘടകങ്ങൾ നോക്കാം ആദ്യം നമുക്ക് BJT യിലൂടെ ഒഴുകുന്ന ഘടകം നോക്കാം അതിനാൽ ഇൻഡക്റ്റർ കറന്റിന്റെ ഈ ഭാഗം നീല ഭാഗം BJT വഴി ഒഴുകുന്നു ഈ നീല ഭാഗത്തിന്റെ ശരാശരി മൂല്യം Iin ആണ് ആ പീക്ക് മൂല്യം ഇൻഡക്റ്റർ കറന്റിന്റെ ശരാശരി മൂല്യമാണ് Iin Io ∆ IL അതിനാൽ Iin Io ∆IL ആയിരിക്കും മൂല്യം ഡയോഡിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയ്ക്കായി നമുക്ക് അതിനെ ഇതുപോലെ സ്ഥാപിക്കാം എന്ന് നിങ്ങൾ കാണും മഞ്ഞ ഭാഗം ഡയോഡിലൂടെ ഒഴുകുന്ന കറന്റാണ് കൂടാതെ ഡയോഡ് കറന്റിന്റെ ശരാശരി Io മൂല്യമാണ് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിലെന്നപോലെ ഡയോഡ് കറന്റ് മൂല്യത്തിന്റെ ശരാശരി Io ആണെന്ന് ഞാൻ കാണിച്ചു ഈ വേവ് ഫോം ഞാൻ നീക്കം ചെയ്യട്ടെ അതിനാൽ ഇത് ഡയോഡ് കറന്റ് തരംഗ രൂപം ആണെന്ന് വ്യക്തമാകും നിങ്ങൾ ഒരു CRO യിൽ കാണുന്നത് പോലെയുള്ള തരംഗ രൂപം ഈ പ്രത്യേക തരംഗ രൂപത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന ഡയോഡിനുള്ള റേറ്റിംഗ് അതിനാൽ ഇൻഡക്റ്റർ കറന്റ് പീക്ക് മൂല്യം Iin Io ∆IL2 ആയിരിക്കും പീക്ക് കറന്റ് മൂല്യം ശരാശരി മൂല്യം Io മൂല്യമായിരിക്കും അതിനാൽ ഇത് ഡയോഡിനുള്ള റേറ്റിംഗുകളായിരിക്കും കൃത്യം അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് C യുടെ മൂല്യം കണക്കാക്കാം BOOST കൺവെർട്ടറിനായി നമ്മൾ ചെയ്തത് പോലെ ഈ തരംഗ രൂപമെടുക്കുന്നത് നിങ്ങൾ കാണുന്നു ഇതിന് കീഴിലുള്ള ഏരിയ ഡെൽറ്റ Q ആയിരിക്കും ഇതിന് കീഴിലുള്ള ഏരിയ ഡെൽറ്റ Q ആയിരിക്കും IodTs ഈ സമയത്ത് നിങ്ങൾക്ക് ഡെൽറ്റ Q തരും BOOST കണക്റ്റർ പോലെ തന്നെ കൺവെർട്ടർ മൂല്യത്തിന് C യുടെ മൂല്യം ലഭിക്കുന്നു ട്രാൻസിസ്റ്ററിന്റെ റേറ്റിംഗിനായി ഈ ബ്ലൂ വേ ഫോമും ഡയോഡ് കറന്റ് റേറ്റിംഗുകൾ പോലെയായിരിക്കും പീക്ക് റേറ്റിംഗ് Iin Io ∆IL2 ആയിരിക്കും ശരാശരി Iin ആയിരിക്കും Io ആയിരിക്കില്ല അതായിരിക്കും ഇതിന്റെ റേറ്റിംഗ് Iin നിങ്ങൾക്ക് V മൂല്യം അറിയുന്നത് കണ്ടെത്താനാകും കൂടാതെ Io നൽകിയിരിക്കുന്ന ഒരു സ്പെക് ആണ് അതിനാൽ Iin കണക്കാക്കാം ബക്കിനും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിനും നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ L ന്റെ മൂല്യവും C യുടെ മൂല്യവും കണ്ടെത്തുന്നതിനുള്ള ഒരു എക്സസൈസായി ഞാൻ ഇത് നൽകാം നിങ്ങൾക്ക് അത് നേടാനായില്ലെങ്കിൽ അത് ഫോറത്തിൽ ഇടുക ഞാൻ അത് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യും പരിശീലനത്തിനായി ഞാൻ സിമുലേഷൻ സർക്യൂട്ടുകളും ഇടും അതുവഴി നിങ്ങൾക്ക് സിമുലേഷനുകൾ പരിശീലിക്കാനും തരംഗ രൂപങ്ങൾ കാണാനും കഴിയും മൂന്ന് കൺവെർട്ടറുകൾക്കും സിമുലേഷനുകൾ ചെയ്യുക നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ബക്ക് കൺവെർട്ടറിന് മാത്രമല്ല BOOST നും ബക്ക് BOOST കൺവെർട്ടറിനും പോൾ വോൾട്ടേജ് തരംഗരൂപവും ഇൻഡക്ടർ കറന്റ് വേവ്ഫോമും നോക്കുക